വിവിധ ജ്യാമിതികളുടെ സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടറുകളുടെ വിലയിരുത്തൽ കഴിഞ്ഞ കുറച്ച് ക്ലാസുകളിൽ നമ്മൾ ചർച്ച ചെയ്യുകയായിരുന്നു തുടക്കത്തിൽ തിക്നെസ്സ് ക്രാക്ക് നമ്മൾ നോക്കി തുടർന്ന് നമ്മൾ എംബെഡഡ് ക്രാക്കുകളിലേക്ക് നീങ്ങി എംബെഡഡ് എലിപ്റ്റിക്കൽ ഫ്ലോയുടെ കാര്യത്തിൽ നിങ്ങൾ എന്ത് കണ്ടെത്തും കെ യുടെ എക്സ്പ്രഷൻ ഈ രീതിയിലാണ് നൽകിയിരിക്കുന്നത് ഇത് തീറ്റയുടെ ഫങ്ഷൻ ആയി വ്യത്യാസപ്പെടുന്നു ഇത് എന്താണ് സൂചിപ്പിക്കുന്നത് ക്രാക്ക് ഫ്രണ്ടിന്റെ അതിർത്തിയിൽ സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ മാറിക്കൊണ്ടിരിക്കും ഇതുപോലുള്ള ഒരു തീറ്റയുമായി ബന്ധപ്പെട്ട പോയിന്റ് നിങ്ങൾ കണ്ടെത്തുന്നു നിങ്ങൾ ഒരു ആംഗിൾ തീറ്റ ഇട്ടു അത് സർക്കിളിൽ തട്ടുന്നു അവിടെ നിന്ന് നിങ്ങൾ ഒരു ലൈൻ ഇടുകയും ഈ പോയിന്റ് എലിപ്സിൽ സ്ഥിതിചെയ്യുകയും ചെയ്യുന്നു എലിപ്സിലെ ഈ പോയിന്റിനായി നിങ്ങൾക്ക് KI ഇങ്ങനെ ലഭിക്കുന്നു തീറ്റ ഇതുപോലെ നിർവചിക്കപ്പെടുന്നു ഈ രീതിയിൽ പ്രകടിപ്പിച്ച I 2 ന്റെ അളവും നിങ്ങൾക്കുണ്ട് സർഫസ് ക്രാക്കുകളുടെ ഐഡിയലൈസേഷൻ ഇനി നമ്മൾ കാണുന്നത് എലിപ്റ്റിക്കൽ ഫ്ലോ ആണ് സർഫസ് ഫ്ലോകളിലേക്ക് നമ്മൾ എങ്ങനെ പോയി മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് ഇവിടെയാണ് സർഫസ് ക്രാക്കുകൾ നിങ്ങൾ എങ്ങനെ മാതൃകയാക്കും നിങ്ങൾക്ക് ഒരു സർഫസ് ക്രാക്ക് ഉണ്ടാകുമ്പോൾ ആരംഭിക്കുന്നതിനു വേണ്ടി സർഫസ് ക്രാക്ക് ഒരു സെമി എലിപ്റ്റിക്കൽ ഫ്ലോ ആയി കണക്കാക്കാം എനിക്ക് ഒരു കോർണർ ക്രാക്ക് ഉണ്ടെന്ന് കരുതുക കോർണർ ക്രാക്ക് ഒരു ക്വാർട്ടർ എലിപ്റ്റിക് ആയി കണക്കാക്കാം എനിക്ക് ഇതുപോലുള്ള ഒരു ഫ്ലോ ഉണ്ടാകുമ്പോൾ ഇത് സെമി എലിപ്റ്റിക്കൽ ആകൃതിയായും ഒരു കോർണർ ക്രാക്ക് ഒരു എലിപ്സിലെ ക്വാർട്ടർ ആയും അനുയോജ്യമായി കണക്കാക്കാം അതിനാൽ എലിപ്റ്റിക്കൽ സൊല്യൂഷനിൽ നിന്ന് ചെറിയ വലിപ്പത്തിലുള്ള ക്രാക്കുകൾക്കെങ്കിലും ലളിതമായ ആർഗ്യുമെന്റുകൾ ഉപയോഗിച്ച് നിങ്ങൾ പരിഷ്ക്കരിക്കുകയാണെങ്കിൽ ഈ ഫലങ്ങൾ സുഖകരമായി ഉപയോഗിക്കാൻ കഴിയും അങ്ങനെയാണ് ആളുകൾ മുന്നോട്ട് പോയത് എനിക്ക് ഒരു സെമി എലിപ്റ്റിക്കൽ സർഫസ് ക്രാക്ക് ഉണ്ടാകുമ്പോൾ നിങ്ങൾ സ്വയം നൊട്ടേഷണൽ മാറ്റം ഓർമ്മപ്പെടുത്തണം സർഫസിലെ നീളം 2 സി ആയി കണക്കാക്കുന്നു അതായത് എലിപ്റ്റിക്കൽ ഫ്ലോയുടെ മേജർ ആക്സിസ് 2 സി ആയി എടുക്കുകയും ഉള്ളിലെ ആഴം a ആയി എടുക്കുകയും ചെയ്യുന്നു എനിക്ക് ഒരു പൂർണ്ണ രൂപം ഉണ്ടെങ്കിൽ അത് 2 എ ആയിരിക്കും ഇത് നമ്മൾ പരിഗണിക്കുന്ന ഒരു സെമി എലിപ്റ്റിക്കൽ ഫ്ലോ ആണ് നിങ്ങൾ ഇതിന്റെ ഒരു രേഖാചിത്രം തയ്യാറാക്കുന്നു ഇത് സർഫസ് ഫ്ലോ ഉള്ള അനന്തമായ വസ്തുവാണെന്ന് പരിഗണിക്കുക നിങ്ങൾ ഒരു വൃത്തിയുള്ള സ്കെച്ച് ഉണ്ടാക്കുന്നു നിങ്ങൾക്ക് ഒരേപോലെ ഡിസ്ട്രിബ്യുട്ട് ചെയ്യപ്പെട്ട സ്ട്രെസ് ഫീൽഡ് ഉണ്ട് നിങ്ങൾക്ക് ഈ നീളം 2 സി എ എന്നിങ്ങനെ ഉണ്ട് നമുക്ക് ഒരു SEN മാതൃകയിൽ ഒരു ഫ്രീ സർഫസ് ിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ക്രാക്ക് ഉണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ നമ്മൾ എന്താണ് ചെയ്തത് നമ്മൾ ആ സിഗ്മയെ 1 12 സിഗ്മയായി പരിഷ്ക്കരിച്ചു സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ മൂല്യം കണ്ടെത്താൻ ആളുകൾ തുടക്കത്തിൽ ശ്രമിച്ചപ്പോൾ ഈ സമാനമായ സമീപനമാണ് അവർ ഉപയോഗിച്ചത് എലിപ്റ്റിക്കൽ സൊല്യൂഷനെ അടിസ്ഥാനമാക്കി ഇതുപോലുള്ള ഒരു സർഫസ് ഫ്ളോക്ക് സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ കണ്ടെത്താനുള്ള എക്സ്പ്രഷൻ നിങ്ങൾക്കുണ്ട് K I ഈക്വൽ റ്റു 1 12 ടൈംസ് സിഗ്മ റൂട്ട് പൈ എ ഇത് മാത്രമാണ് മാറ്റം നിങ്ങൾ I 2 കൊണ്ട് ഹരിച്ച് ഈ എക്സ്പ്രഷൻ തീറ്റ ഫോമിൽ ആക്കുക സൈൻ സ്ക്വയർ തീറ്റപ്ലസ് എ ബൈ സി ഹോൾ സ്ക്വയേർഡ് കോസ് സ്ക്വയേർഡ് തീറ്റ ഹോൾ പവർ 1 ബൈ 4 അതിനാൽ നമ്മൾ ചെയ്തത് SEN മാതൃക വിശകലനം ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ നേടിയ അറിവ് എന്തുതന്നെയായാലും നമ്മൾ എക്സ്ട്രാപോലേറ്റ് ചെയ്തു എംബെഡഡ് എലിപ്റ്റിക്കൽ ഫ്ലോയിൽ നിന്നുള്ള ഫലം സംയോജിപ്പിച്ചു ബ്രേക്കിന് മുമ്പുള്ള ലീക്ക് സാധ്യത സർഫസ് ക്രാക്കിനെ ഒരു സെമി എലിപ്സ് ആയി നമ്മൾ മാതൃകയാക്കിയതിനാൽ ഇപ്പോൾ സിഗ്മയെ 1 12 സിഗ്മയായി മാറ്റുക എംബെഡഡ് ഫ്ലോയിൽ നമ്മൾ കണ്ടതുപോലുള്ള സമാന ഫലങ്ങൾ നമ്മൾ വീണ്ടും നോക്കും സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടർ സ്ഥിരമായി നിലനിൽക്കുന്നില്ല പക്ഷേ ക്രാക്ക് ഫ്രണ്ടിന്റെ ചുറ്റളവിൽ വ്യത്യാസപ്പെടുന്നു മേജർ ആക്സിസിലും മൈനർ ആക്സിസിന്റെ അറ്റത്തും ഈ മൂല്യങ്ങൾ എങ്ങനെ മാറുന്നുവെന്ന് നമ്മൾ കാണും മൈനർ ആക്സിസിന്റെ അങ്ങേയറ്റത്ത് അതായത് തീറ്റ തൊണ്ണൂറ് ഡിഗ്രിക്ക് തുല്യമാണ് സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ KI 90 ആയി നൽകിയിരിക്കുന്നു അത് 1 12 സിഗ്മ റൂട്ട് പൈ എ ഡിവൈഡഡ് ബൈ I2 ആണ് ഇത് ക്രാക്ക് ഫ്രണ്ടിലെ സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടറിന്റെ പരമാവധി മൂല്യമാണ് തീറ്റ 0 ഡിഗ്രിക്ക് തുല്യമാണെന്ന് കരുതുക അതായത് മേജർ ആക്സിസിന്റെ അവസാനത്തിൽ സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടറിന്റെ മൂല്യം 1 12 ടൈംസ് സിഗ്മ റൂട്ട് പൈ എ ഡിവൈഡഡ് ബൈ I 2 ഇന്റു എ ബൈ സി ഹോൾ പവർ ഹാഫ് ആണ് നിങ്ങൾക്കറിയാമോ ഈ പദപ്രയോഗം വളരെ പ്രാധാന്യമർഹിക്കുന്നു ഇത് ധാരാളം വിവരങ്ങൾ വഹിക്കുന്നു ആദ്യം നിങ്ങൾ തിരിച്ചറിയണം നിങ്ങൾക്ക് ഒരു സർഫേസ് ഫ്ലോ ഉണ്ടാകുമ്പോൾസ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ കോൺസ്റ്റന്റ് ആയി നിലനിൽക്കില്ല ഇത് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് മാറുന്നു അപ്പോൾ ഇത് എന്താണ് സൂചിപ്പിക്കുന്നത് ക്രാക്ക് വിപുലീകരണത്തിന് ഒരു പ്രത്യേക ദിശയ്ക്കു മുൻഗണന നൽകാം ഒരു എലിപ്റ്റിക്കൽ ഫ്ലോയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടു എംബെഡഡ് എലിപ്റ്റിക്കൽ ഫ്ലോ വൃത്താകൃതിയിലുള്ള ഒരു ഫ്ലോ ആകാൻ ശ്രമിക്കും കാരണം സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ വ്യത്യാസപ്പെട്ടിരിക്കും അതിനാൽ സർഫസിലെ ഒരു തകരാറിനും സമാനമായ ഒരു കാര്യം സംഭവിക്കാം ഫ്രാക്ച്ചർ ഉണ്ടാകുന്നതിനുമുമ്പ് ലീക്ക് ഉണ്ടാകാം എന്ന ആശയം വിലമതിക്കാനും ഇത് സഹായിക്കുന്നു ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ കൂടുതലാണ് അതിനാൽ ക്രാക്ക് വശങ്ങളിലേക്കല്ല ഉള്ളിലേക്ക് തുളച്ചുകയറാൻ ശ്രമിക്കും മെറ്റീരിയലിനുള്ളിൽ ആഴത്തിലുള്ള ക്രാക്ക് ടിപ്പിന്റെ സെഗ്മെന്റിനു ഉയർന്ന സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ ഉണ്ട് ഇത് കണക്കിലെടുക്കുമ്പോൾ ക്രാക്ക് വശങ്ങളേക്കാൾ സർഫസിൽ ആഴത്തിൽ വളരുന്നു അതിനാൽ അത് കൂടുതൽ ആഴത്തിൽ വളരുമ്പോൾ അത് നമുക്ക് പ്രയോജനകരമാണ് അത്തരം നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം ആളുകൾ ലീക്ക് ബിഫോർ ബ്രേക്ക് എന്ന മാനദണ്ഡം കൊണ്ടുവന്നിട്ടുണ്ട് അത് കൈവരിക്കാനാവും ഒരു മെറ്റീരിയൽ പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങളുടെ ഡിസൈൻ പാരാമീറ്റർ ഉചിതമായി ക്രമീകരിക്കുകയാണെങ്കിൽ എല്ലായ്പ്പോഴും ലീക്ക് ഉറപ്പാക്കാൻ നിങ്ങൾക്ക് കഴിയും ബ്രേക്കിന് മുമ്പ് ഇത് സംഭവിക്കുന്നു ഇത് സാധ്യമാകുന്നതിനാൽ ആളുകൾ ഇത് ഒരു മാനദണ്ഡമായി കണക്കാക്കി മനോഹരമായ ഒരു ആനിമേഷൻ നമ്മൾ കാണും ഇത് നിങ്ങൾക്ക് മനസിലാക്കാൻ സഹായിക്കും നമ്മൾ യഥാർത്ഥത്തിൽ പറയുന്നത് ഇതുപോലുള്ള ഒരു സർഫസ് ക്രാക്ക് ഈ രീതിയിൽ വളരും നിങ്ങൾക്കറിയാമോ നിങ്ങൾക്ക് ഇവിടെ എന്തൊക്കെ ഫ്ലോ ഉണ്ടായാലും അത് ഒരു സർക്കിളായി മാറുന്ന രീതിയിൽ മുന്നോട്ട് പോകും ഇതിൽ നിങ്ങൾ പലതും ശ്രദ്ധിക്കേണ്ടതുണ്ട് നമുക്ക് വേണ്ടത് ക്രാക്ക് ഇതുപോലെ വളർന്ന് സർഫസിൽ സ്പർശിച്ചാൽ എനിക്ക് ഒരു പ്രെഷർ വെസൽ ഉണ്ടെങ്കിൽ അത് ചോർന്നൊലിക്കും ഇത് ചോർന്ന് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണ് ഒന്നാമതായി നിങ്ങൾക്ക് പോയി എന്തെങ്കിലും തെറ്റ് സംഭവിച്ചതായി കണ്ടെത്താനാകും നിങ്ങൾ പോയി അത് ശരിയാക്കണം നോക്കാനുള്ള മറ്റൊരു മാർഗ്ഗംപ്രെഷർ വെസൽ ചോർന്നൊഴുകുമ്പോൾ അതിൽ പ്രവർത്തിക്കുന്ന ലോഡുകൾ സ്വാഭാവികമായി താഴുന്നു അതിനാൽ ആ കാഴ്ചപ്പാടിൽ നിന്നു നോക്കുമ്പോൾ ഒരു സംരക്ഷണം കൂടിയാണിത് അതിൽ പ്രവർത്തിക്കുന്ന ലോഡ് കുറയുമ്പോൾ അത് നല്ലതാണ് എന്നിരുന്നാലും ഒരു വാട്ടർ ഹാമർ കാരണം നിങ്ങൾക്ക് ക്രാക്ക് പ്രചരിപ്പിക്കാനും കഴിയുമായിരുന്നു അങ്ങനെയാണെങ്കിൽ പ്രെഷർ യഥാർത്ഥ പ്രെഷറിനെക്കാൾ കൂടുതലായിരിക്കും അതിനാൽ നിങ്ങൾ രൂപകൽപ്പന ചെയ്യുമ്പോൾഈ സാധ്യതകളും നോക്കണംപ്രെഷർ കുറയുന്നു അല്ലെങ്കിൽ കൂടുന്നുവെന്ന് നിങ്ങൾ ഉറപ്പാക്കേണ്ടതുണ്ട് പ്രെഷർ ഉയരുന്നത് കൂടുതൽ ശ്രദ്ധാപൂർവ്വം നോക്കേണ്ടതുണ്ട് മറ്റൊരു വശവും നിങ്ങൾക്ക് ഇതിൽ നിന്ന് പഠിക്കാം നിങ്ങൾ പോയി സാഹിത്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ക്ലാസിന്റെ അവസാനം വരെ നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യും എനിക്ക് ഇതുപോലുള്ള ഒരു ക്രാക്ക് ഫ്രണ്ട് ഉള്ളപ്പോൾ ക്രാക്ക് ഫ്രണ്ടിന്റെ മുൻവശത്തോട് അടുത്ത് കിടക്കുന്ന സോണുകളിൽ ഇവിടെ അരികുകളിൽ നിന്ന് അകലെ ഇത് ഏകദേശം പ്ലെയിൻ സ്ട്രെയിൻ തരത്തിലുള്ള സാഹചര്യങ്ങൾ ആണ് നിങ്ങൾക്ക് പ്രധാനമായും ഒരു ട്രൈ ആക്സിയൽ നിയന്ത്രണം ഉണ്ട് നിങ്ങൾ KI സി ഒരു ഫ്രാക്ച്ചർ ടഫ്നെസ്സ് ആയി ഉപയോഗിക്കും ഇത് പ്ലെയിൻ സ്ട്രെയിൻ ഫ്രാക്ച്ചർ ടഫ്നെസ്സ് ആണ് ഫ്രാക്ച്ചർ ടഫ്നെസ്സ് തിക്നെസിന്റെ ഒരു ഫങ്ഷൻ ആണെന്ന് ഒരു ഗ്രാഫ് കാണിക്കാതെ ഞാൻ പരാമർശിച്ചു പ്ലെയ്ൻ സ്ട്രെസിൽ ഫ്രാക്ച്ചർ ടഫ്നെസ്സ് കൂടുതലാണ് പ്ലെയിൻ സ്ട്രെയിനിൽ ഫ്രാക്ച്ചർ ടഫ്നെസ്സ് ഏറ്റവും കുറവാണ് സർഫസ് ഫ്ലോയുടെ കാര്യത്തിൽ എന്ത് സംഭവിക്കും നിങ്ങൾക്ക് ഒരു നല്ല കോമ്പിനേഷൻ ഉണ്ട് ക്രാക്ക് ഫ്രണ്ടിന്റെ ഈ മേഖലയിൽ സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ കൂടുതലാണ് ഇത് മാത്രമല്ല ഇത് പ്രചരിപ്പിക്കുന്നതിനായി ഉപയോഗിക്കേണ്ട ഫ്രാക്ചർ ടഫ്നെസ്സ് പ്ലെയിൻ സ്ട്രെയിൻ ഫ്രാക്ചർ ടഫ്നെസ് ആയിരിക്കണം ഇത് സാധാരണയായി പ്ലെയിൻ സ്ട്രെസ് ഫ്രാക്ചർ ടഫ്നെസിനേക്കാൾ കുറവാണ് ക്രാക്ക് പൂർണ്ണമായും വളർന്നുവെന്ന് കരുതുക അപ്പോൾ നിങ്ങൾക്ക് ഈ തിക്നെസ്സ് ഒരു പ്ലെയ്ൻ സ്ട്രെസ് സാഹചര്യത്തെ സൂചിപ്പിക്കുന്നതായി കണക്കാക്കാം ക്രാക്ക് ഒരു വശത്തേക്ക് നീങ്ങേണ്ടിവരുമ്പോൾ നമ്മൾ പ്രധാനമായും പ്ലെയിൻ സ്ട്രെസ് ഫ്രാക്ചർ ടഫ്നെസ് ഉപയോഗിക്കും പ്ലെയിൻ സ്ട്രെസ് ഫ്രാക്ചർ ടഫ്നെസിനേക്കാൾ കുറവാണ് പ്ലെയിൻ സ്ട്രെയിൻ ഫ്രാക്ചർ ടഫ്നെസ് അതിനാൽ നിങ്ങൾക്ക് ഒരു നല്ല കോമ്പിനേഷൻ ഉണ്ട് ക്രാക്ക് തുറക്കുകയും മറ്റേ അറ്റത്ത് സ്പർശിക്കുകയും ചെയ്യും അപ്പോൾ അത് വശങ്ങളിലായി പ്രചരിക്കാൻ തുടങ്ങും അപ്പോൾ ഇതിന്റെ ഘട്ടങ്ങൾ എന്തൊക്കെയാണ് സർഫസിൽ ഒരു ക്രാക്ക് വികസിപ്പിച്ചെടുക്കേണ്ടതുണ്ടെന്ന് കാണുക ചില വളർച്ചാ സംവിധാനങ്ങളാൽ ക്രാക്കിന് ഒരു വളർച്ചാ ഘട്ടമുണ്ട് അപ്പോൾ അത് അസ്ഥിരതയിലെത്തുന്നു അത് എന്ത് വഴിയാണ് സംഭവിക്കുന്നത് ഇത് ആദ്യം തിക്നെസിലൂടെ തുളച്ചുകയറുന്നു കാരണം നിങ്ങളുടെ ഫ്രാക്ച്ചർ ടഫ്നെസ്സ് കുറവാണ് മാത്രമല്ല നിങ്ങളുടെ സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ കൂടുതലാണ് അത് മറ്റ് സർഫസിലെത്തിക്കഴിഞ്ഞാൽ അത് ഉടൻ തന്നെ വശങ്ങളിലേക്ക് പോകാൻ തുടങ്ങുന്നു എന്നല്ല അത് ഉടനടി മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ഒരു ഹോൾ ഉണ്ടാകില്ല ലീക്ക് ബിഫോർ ബ്രേക്ക് മാനദണ്ഡത്തിൽ നിങ്ങൾ ഉറപ്പാക്കാൻ ആഗ്രഹിക്കുന്നത് മുന്നിലേക്ക് നീങ്ങുന്നതും വശങ്ങളിലേക്ക് നീങ്ങുന്നതും ആയ ക്രാക്ക് തമ്മിൽ ആരോഗ്യകരമായ ഒരു വിടവ് നിങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാലാണ് നിങ്ങൾ അത് പരിശോധിക്കാൻ മതിയായ സമയം ലഭിക്കുന്ന തരത്തിൽ നിങ്ങൾ ഡിസൈൻ പാരാമീറ്ററുകൾ മാറ്റുന്നത് നമുക്ക് ഇത് നോക്കാം അതിനാൽ നമുക്ക് വേണ്ടത് അത് ഈ ഘട്ടത്തിലെത്തുകയും തുടർന്ന് ദ്രാവകം രക്ഷപ്പെടാൻ അനുവദിക്കുകയും വേണം അതിനാൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അറ്റകുറ്റപ്പണി നടത്താനോ പ്ലാൻ നിർത്തി വച്ച് ചില കറക്ഷൻ നടപടികൾ നടത്താനോ സാധ്യതയുണ്ട് വശങ്ങളിൽ നിങ്ങൾക്ക് ഒരു വളർച്ചാ ഘട്ടം ഉണ്ടാകും അതിനുശേഷം അസ്ഥിരതയും ഇത് അസ്ഥിരമാവുകയും പിന്നീട് തിക്നെസിലൂടെ തുളച്ചുകയറുകയും വശങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു എന്നല്ല അത് ഒന്നിനുപുറകെ ഒന്നായി സംഭവിക്കുകയാണെങ്കിൽലീക്ക് ബിഫോർ ബ്രേക്ക് മാനദണ്ഡം പാലിക്കപ്പെടില്ല ലീക്ക് ബിഫോർ ബ്രേക്ക് മാനദണ്ഡത്തിൽ നിങ്ങൾക്ക് അത് പരിശോധിക്കാൻ മതിയായ സമയ മാർജിൻ ഉണ്ടെന്ന് ഉറപ്പാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു അത് ചെയ്യാൻ കഴിയുന്നതുമാണ് ക്രാക്ക് ഫ്രണ്ടിലെ സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ വ്യതിയാനവും നിങ്ങൾ കണ്ടെത്തിയ ഫ്രാക്ചർ പ്രോപ്പർട്ടികളും വച്ച് നിങ്ങൾക്കു ഇങ്ങനെ വിലയിരുത്താം നിങ്ങൾ ഡിസൈൻ പാരാമീറ്ററുകൾ മാറ്റി മാറ്റി ഉപയോഗിച്ചാൽ ശരിക്കും ലീക്ക് ബിഫോർ ബ്രേക്ക് മാനദണ്ഡം അത് ചെയ്യാൻ കഴിയും തിക്നെസ്സ് ക്രാക്ക് മാത്രം ചർച്ചചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ അറിവ് ലഭിക്കില്ല എന്ന് നിങ്ങൾക്കറിയാം ത്രൂ തിക്നെസ്സ് ക്രാക്കിൽ നിങ്ങൾ കണ്ടത് എന്താണ് ക്രാക്ക് ഫ്രണ്ടിൽ സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടർ സ്ഥിരമായി തുടരുന്നു നിങ്ങൾ എലിപ്റ്റിക്കൽ ഫ്ലോയിലേക്ക് വന്നുകഴിഞ്ഞാൽ ക്രാക്ക് ഫ്രണ്ടിൽ സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ വ്യത്യാസപ്പെട്ടിരിക്കും നിങ്ങളുടെ ഡിസൈൻ ശരിയായി പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ലീക്ക് ബിഫോർ ബ്രേക്ക് മാനദണ്ഡം പ്രെഷർ വെസൽ പൈപ്പിങ് കാര്യത്തിൽ പാലിക്കാൻ നിങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യമുണ്ട് നിങ്ങൾക്കറിയാമോ ആളുകളും ഇതും നോക്കിക്കാണുന്നു എനിക്ക് ഒരു ആഴമില്ലാത്ത ക്രാക്ക് ഉണ്ടെന്ന് കരുതുക ഒരു ആഴമില്ലാത്ത ക്രാക്കിൽ I 2 യൂണിറ്റിക്ക് അടുത്താണ് തൊണ്ണൂറ് ഡിഗ്രിയിൽ SIF 1 12 സിഗ്മ റൂട്ട് പൈ a ആയി മാറുന്നു നിങ്ങൾക്ക് ഇവിടെ ഉള്ളത് ഒരു ഫ്രീ സർഫസ് ആണ് എന്ന് നമ്മൾ ഇതിനകം കണ്ടു നിങ്ങൾ ഇതിനെ ഒരു ബാക്ക് ഫ്രീ സർഫസ് കറക്ഷൻ എന്ന് വിളിക്കുന്നു കാരണം ഒരു ഫ്രണ്ട് ഫ്രീ സർഫസ് കറക്ഷൻ നമ്മൾ ഉടൻ കാണാൻ പോകുന്നു ആ ആശയം മനസിൽ നിലനിർത്തികൊണ്ടു നിങ്ങൾ ഇതിനെ ഒരു ബാക്ക് ഫ്രീ സർഫസ് കറക്ഷൻ എന്ന് വിളിക്കുന്നു എനിക്ക് ഒരു ക്രാക്ക് ഫ്രണ്ട് ഉണ്ടെന്ന് കരുതുക എനിക്ക് ഒരു ഫ്രണ്ട് സർഫസും ബാക് സർഫസും ഉണ്ടായിരിക്കാം ഞാൻ ഒരു കറക്ഷൻ ഘടകം മാത്രമേ പ്രയോഗിക്കാൻ പോകുകയുള്ളൂവെങ്കിൽ അതായത് ഫ്രീ സർഫസ് കറക്ഷൻ ഘടകം ബാക് ഫേസിനും ഫ്രണ്ട് ഫേസിനും എനിക്ക് പ്രത്യേക കറക്ഷൻ ഘടകം ഉള്ളതിനാൽ നിങ്ങൾ അതിനെ വ്യത്യസ്തമായി വിളിക്കുന്നു നമ്മുടെ അറിവ് ഉണ്ടാക്കുന്നതിനുള്ള ഒരു മാർഗ്ഗം താരതമ്യ അർത്ഥത്തിൽ ആഴം കുറഞ്ഞ ഒരു ക്രാക്ക് a നീളമുള്ള ത്രൂ തിക്നെസ്സ് എഡ്ജ് ക്രാക്കിന് തുല്യമാണ് എഡ്ജ് ക്രാക്ക് ഒരു സെന്റർ ക്രാക്കിനേക്കാൾ അപകടകരമാണെന്ന് നമ്മൾ എല്ലായ്പ്പോഴും കണ്ടിട്ടുണ്ട് ഇത് മാത്രമല്ല നിങ്ങൾ ഒരു സർഫസ് ക്രാക്കിനെ ഒരു തിക്നെസ്സ് ക്രാക്കുമായി താരതമ്യം ചെയ്യുമ്പോഴും ഇത് നമ്മൾ പിന്നീട് കാണും നേർത്ത പ്ലേറ്റുകളിലെ തിക്നെസ്സ് ക്രാക്കുകളുടെ ക്രാക്ക് ഫ്രണ്ടിൽ നിങ്ങൾ പ്ലെയ്ൻ സ്ട്രെസ് മാത്രം ഉപയോഗിക്കുന്നു ട്രയാക്സിയാലിറ്റി പരിമിതി കാരണം നേർത്ത പ്ലേറ്റിൽ നിങ്ങൾക്ക് സർഫസ് ക്രാക്ക് ഉണ്ടാകുമ്പോഴെല്ലാം ക്രാക്ക് ഫ്രണ്ടിൽ പോലും അതിനേക്കാൾ കുറവായ പ്ലെയിൻ സ്ട്രെയിൻ ഫ്രാക്ചർ ടഫ്നെസ്സ് ഉപയോഗിക്കേണ്ടിവരും പ്ലാസ്റ്റിക് സോൺ കറക്ഷൻ അതിനാൽ ഒരർത്ഥത്തിൽ സർഫസ് ക്രാക്ക് എല്ലായ്പ്പോഴും ത്രൂ തിക്നെസ്സ് എഡ്ജ് ക്രാക്കിനേക്കാൾ അപകടകരമാണ് നിങ്ങൾ ഓർമ്മിക്കേണ്ടിവരും സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ സമാനമാണെങ്കിലും ഒരു സർഫസ് ക്രാക്കിന് ഫ്രാക്ചർ ടഫ്നെസ്സ് നമ്മൾ വ്യത്യസ്തമായി ഉപയോഗിക്കും അടുത്ത അധ്യായത്തിൽ പ്ലാസ്റ്റിക് സോൺ എങ്ങനെ കണക്കാക്കാമെന്ന് നമ്മൾ വിശദമായി ചർച്ച ചെയ്യും സർഫസ് ക്രാക്കുകൾ വളരെ പ്രധാനമായതിനാൽ സർഫസ് ക്രാക്കുകൾക്കായി നേടിയ ഫലങ്ങൾ എങ്ങനെ മെച്ചപ്പെടുത്താമെന്ന് ആളുകൾ ചിന്തിച്ചു അതിനാൽ ആളുകൾക്ക് തോന്നി നിങ്ങൾ ഡക്റ്റൈൽ മെറ്റീരിയലുകൾക്കായി ഇത് ഉപയോഗിക്കുമ്പോൾ പ്ലാസ്റ്റിക് സോണിന്റെ വികസനത്തിനായി ചില കറക്ഷൻ ഘടകങ്ങൾ ചെയ്യുന്നതും അഭികാമ്യമാണ് ഇത് കൈകാര്യം ചെയ്യുന്നതിനുള്ള ഏറ്റവും ലളിതമായ മാർഗ്ഗങ്ങളിലൊന്ന് നിങ്ങൾക്ക് എ എന്ന ക്രാക്ക് ദൈർഘ്യം ഉള്ളപ്പോൾ നിങ്ങൾ ഒരു ചെറിയ ദൈർഘ്യം കൂടി അതോടൊപ്പം എടുക്കുന്നു അത് ഒരു നിശ്ചിത നടപടിക്രമത്തിലൂടെ കണക്കാക്കുന്നു അത് അടുത്ത അധ്യായത്തിൽ നമ്മൾ കാണും ക്രാക്ക് ദൈർഘ്യം a ആയി ഉപയോഗിക്കുന്നതിനുപകരം നമ്മൾ പുതിയ ദൈർഘ്യത്തിന്റെ ഫലം നോക്കും നിങ്ങൾ ഒരു പരിഷ്ക്കരിച്ച ക്രാക്ക് ദൈർഘ്യം ഉപയോഗിക്കും അതാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ കാരണം ക്രാക്ക് യഥാർത്ഥ വലുപ്പത്തേക്കാൾ നീളമുള്ളതായി പെരുമാറുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ആർപി സ്റ്റാർ ഉണ്ട് ഈ ഘടകം 1 12 ഇട്ടപ്പോൾ ബാക്കി എക്സ്പ്രഷൻ നമ്മൾ കണ്ടതിന് സമാനമാണ് ആർപി സ്റ്റാർ ഇത് ഒരു ചരിത്ര മൂല്യമാണ് 1960 ൽ ഇർവിൻ ഇത് റിപ്പോർട്ട് ചെയ്തു അടുത്ത അധ്യായത്തിൽ നമ്മൾ കൂടുതൽ നന്നായി ഈ അധിക ദൈർഘ്യത്തിന്റെ എസ്റ്റിമേറ്റ് കാണും അതിനാൽ നിങ്ങൾ ഇത് ചരിത്രപരമായ വീക്ഷണകോണിൽ നിന്ന് മനസിലാക്കണം എനിക്ക് ആർപി സ്റ്റാർ ഈക്വൽ റ്റു KI സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 പൈ റൂട്ട് 2 ഇന്റു സിഗ്മ സ്ക്വയർ ys ys എന്നാൽ മെറ്റീരിയലിന്റെ യീൽഡ് സ്ട്രെങ്ത് ആണ് നിങ്ങൾ ഈ എക്സ്പ്രഷൻ എഴുതണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആ ദിവസങ്ങളിൽ ആളുകൾക്ക് സ്ലൈഡ് റൂളും ആ സ്വഭാവത്തിലുള്ള കാര്യങ്ങളും മാത്രമേയുള്ളൂവെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ ആളുകൾ എപ്പോഴും ഒരു ഗ്രാഫിന്റെ രൂപത്തിൽ അന്തിമഫലം നേടാൻ ആഗ്രഹിച്ചു ഒപ്പം ആളുകൾ ഇത് ലളിതമാക്കിയതായി നമ്മൾ കണ്ടെത്തി നമുക്കും ഇത് പരിശോധിക്കാം നിങ്ങൾ ഈ അധിക ക്രാക്ക് ദൈർഘ്യത്തിനായി എക്സ്പ്രഷൻ എഴുതുകയും ലളിതമാക്കുകയും ചെയ്യുക KI യുടെ എക്സ്പ്രഷൻ 1 12 സിഗ്മ റൂട്ട് പൈ എ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് I 2 സ്ക്വയർ മൈനസ് 0 212 സിഗ്മ സ്ക്വയർ ഡിവൈഡഡ് ബൈ സിഗ്മ സ്ക്വയർ ys ഹോൾ ഇന്റു സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് എ ബൈ സി ഹോൾ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ഹോൾ പവർ 1 ബൈ 4 ആണ് ഇത് സൌകര്യാർത്ഥം വ്യത്യസ്തമായി പ്രതിനിധീകരിക്കുന്നു സർഫസ് ഫ്ലോയുടെ മൈനർ ആക്സിസിൽ സംഭവിക്കുന്ന പരമാവധി സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടറിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് 12 സിഗ്മ റൂട്ട് പൈ എ ഡിവൈഡഡ് ബൈ Q ആണ് നിങ്ങൾക്ക് Q ന്റെ മൂല്യം നേടാൻ കഴിയുന്ന ഗ്രാഫുകൾ ഉണ്ട് നിങ്ങൾ ഡക്റ്റൈൽ മെറ്റീരിയലുകൾ കൈകാര്യം ചെയ്യുമ്പോൾ യീൽഡ് സ്ട്രെങ്തുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ബാധകമായ സ്ട്രെസ് എന്താണെന്ന് ആലോചിക്കേണ്ടി വരുമെന്ന് നിങ്ങൾക്കറിയാം അതും ഒരു ഘടകമാണ് പ്ലാസ്റ്റിക് സോൺ കറക്ഷൻ നിങ്ങൾ ശരിക്കും നോക്കുകയാണെങ്കിൽ യീൽഡ് സ്ട്രെങ്തുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഞാൻ വസ്തുവിൽ പ്രയോഗിച്ച സമ്മർദ്ദത്തിന്റെ തോത് ഒരു പങ്കു വഹിക്കുന്നു സ്ട്രെസ് യീൽഡ് സ്ട്രെങ്ത്തിന് അടുത്താണെങ്കിൽ കറക്ഷൻ ഘടകം കൂടുതൽ സ്വാധീനം ചെലുത്തുന്നു നിങ്ങൾ കുറഞ്ഞ സമ്മർദ്ദത്തിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ കറക്ഷൻ ഘടകത്തിന് ഒരു ചെറിയ സ്വാധീനമുണ്ട് ഫ്ലോ ഷേപ്പ് പാരാമീറ്റർ അതിനാൽ അതും ഒരു പ്രധാന പാരാമീറ്ററായി മാറുന്നു പരമാവധി സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടറിന്റെ മൂല്യം വിലയിരുത്തുന്നതിന് ആളുകൾ ഗ്രാഫുകൾ നൽകി സർഫസ് ഫ്ലോ വളരെ പ്രധാനമായതിനാൽ ഇവ വളരെ ജനപ്രിയമായ ഗ്രാഫുകളാണ് നിങ്ങൾ സാഹിത്യത്തിലേക്ക് നോക്കുമ്പോൾ ഇത് ഒരു ഫ്ലോ ഷേപ്പ് പാരാമീറ്ററായി നിങ്ങൾക്കുണ്ട് അവക്ക് വളരെ സ്വഭാവഗുണമുണ്ട് X ആക്സിസിൽ നിങ്ങൾക്ക് Q ന്റെ മൂല്യം ഉണ്ട് നിങ്ങൾ ക്രാക്ക് നോക്കുകയാണെങ്കിൽ നീളം 2c എന്നും മെറ്റീരിയലിൽ ആഴം a എന്നും നൽകുന്നു അങ്ങനെ Y ആക്സിസിൽ എ ബൈ 2 സി പ്ലോട്ട് ചെയ്യുന്നു സിഗ്മയുടെ വ്യത്യസ്ത മൂല്യങ്ങൾക്കായി നിങ്ങൾ ഇത് ചെയ്യുന്നു ഇവിടെ ഇത് 1 ന് തുല്യമാണ് മറ്റ് കേസുകൾക്കും ഗ്രാഫുകൾ വരയ്ക്കും ഇതിന്റെ ഒരു രേഖാചിത്രം നിങ്ങൾ തയ്യാറാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ നിങ്ങൾ സർഫസ് ഫ്ലോകൾ കൈകാര്യം ചെയ്യുമ്പോൾ ഫ്ലോ ഷേപ്പ് പാരാമീറ്റർ വളരെ പ്രധാനമാണ് നിങ്ങൾ ഇവിടെ എന്താണ് കണ്ടെത്തുന്നത് നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ കെ സിഗ്മ റൂട്ട് പൈ എ ആണ് ഇവിടെ 1 12 ഇടുകയോ Q ഇടുകയോ ചെയ്താൽ നിങ്ങൾക്ക് ത്രൂ തിക്നെസ്സ് ക്രാക്ക് സെൻട്രൽ ക്രാക്ക് മുതൽ എഡ്ജ് ക്രാക്ക് എഡ്ജ് ക്രാക്ക് മുതൽ സർഫസ് ക്രാക്ക് എന്നിങ്ങനെ വരെ എത്തിച്ചേരാൻ കഴിയും സമാനമായ രൂപമുള്ളതെല്ലാം ചെയ്യാം സാധ്യമെങ്കിൽ ഈ ക്ലാസിന്റെ അവസാനത്തിൽ നമുക്ക് ഇതിന്റെ ഒരു സംഗ്രഹവും ഉണ്ടാകും ആഴമില്ലാത്ത സർഫസ് ക്രാക്കുകൾക്ക് ഈ ചർച്ചയെല്ലാം സാധുവാണ് സിഗ്മ y ബൈ സിഗ്മ ys ന്റെ മറ്റ് മൂല്യങ്ങൾക്കായി ഗ്രാഫ് വരയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത് ഫ്ലോ ഷേപ്പ് പാരാമീറ്ററിന്റെ വളരെ സ്വഭാവ സവിശേഷതയാണ് ഇത്തരത്തിലുള്ള ഒരു ഗ്രാഫ് നിങ്ങൾ നോക്കുമ്പോൾ പോലും ലേബൽ ചെയ്തിട്ടില്ലെങ്കിലും ഇത് ഫ്ലോ ഷേപ്പ് പാരാമീറ്ററിനുള്ള ഗ്രാഫ് ആണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയണം അതിനാൽ ഗ്രാഫിക്കൽ സമീപനത്തിൽ നിന്ന് നിങ്ങൾക്ക് Q കണ്ടെത്താൻ കഴിയും നിങ്ങൾ ലോഡ് പ്രയോഗിച്ച രീതിയിൽ നിന്ന് സിഗ്മ അറിയാൻ എളുപ്പമാണ് അതിനാൽ സർഫസ് ഫ്ലോയുടെ പരമാവധി സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും ഫ്രണ്ട് ഫ്രീ സർഫസ് കറക്ഷൻ ഞാൻ ഇതിനകം സൂചിപ്പിച്ചിരുന്നു ആളുകൾ ചിന്തിച്ചു നിങ്ങൾക്ക് ഫലം ലഭിച്ചുകഴിഞ്ഞാൽ അതിന്റെ കൃത്യത എങ്ങനെ മെച്ചപ്പെടുത്താം ഇത് ചെയ്യുന്നതിനുള്ള ഒരു മാർഗ്ഗം പ്ലാസ്റ്റിക് സോൺ കറക്ഷൻ കൊണ്ടുവരിക എന്നതാണ് മറ്റൊരു കാര്യം എനിക്ക് ഒരു ക്രാക്ക് ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഇത് നിരീക്ഷിക്കുക എനിക്ക് ഇത് വലുതാക്കാൻ കഴിഞ്ഞേക്കും എനിക്ക് ഇവിടെ ഒരു ക്രാക്ക് ഉണ്ട് എനിക്ക് തിക്നെസ്സ് ബി ഉണ്ട് ഇത് ബാക്ക് ഫ്രീ സർഫസ് ആയി മാറുന്നു ഇത് ഫ്രണ്ട് ഫ്രീ സർഫസ് ആയി മാറുന്നു ഈ സർഫസിനോട് അടുത്ത് കിടക്കുന്ന ക്രാക്ക് ആഴമില്ലാത്തതാണെങ്കിൽ ഒരു ബാക് ഫ്രീ സർഫസ് കറക്ഷൻ ശരിയാണ് തുടക്കത്തിൽ ആഴമില്ലാത്ത ക്രാക്കുകൾ വിശകലനം ചെയ്യാമെന്ന് ആളുകൾ കരുതി പക്ഷേ തിക്നെസ്സ് ദിശയിൽ വളരുന്ന ക്രാക്കുകൾക്ക് എന്ത് സംഭവിക്കും എന്നും നിങ്ങൾ നോക്കേണ്ടതുണ്ട് അവ വളരുമ്പോൾ നിങ്ങൾക്ക് ഈ സർഫസിന്റെ സ്വാധീനം കൂടി ഉണ്ടാകും അതാണ് ഒരു ഫ്രണ്ട് ഫ്രീ സർഫസ് ഈ ലളിതമായ M k ആണ് അത് നൽകുന്നത് അതിനാൽ എനിക്ക് 1 12 ഇന്റു M k സിഗ്മ റൂട്ട് പൈ എ ഡിവൈഡഡ് ബൈ Q ഉണ്ട് ഇത് സർഫസ് ക്രാക്കിന് ലഭിച്ച ഫലത്തെക്കാൾ മെച്ചപ്പെടുത്തിയതാണ് നിങ്ങൾക്ക് ഈ ഗ്രാഫുകളും ലഭ്യമാണ് നിങ്ങൾക്ക് ഈ ഗ്രാഫുകൾ എ ബൈ 2 സി യ്ക്കും എ ബൈ ബി പാരാമീറ്ററിനും പ്ലോട്ട് ചെയ്തിരിക്കുന്നു എ ബൈ ബി യുടെ വ്യത്യസ്ത മൂല്യങ്ങൾക്ക് അതായത് തിക്നെസുമായി ബന്ധപ്പെട്ട് ക്രാക്കിന്റെ ആഴത്തിന്റെ വ്യത്യസ്ത മൂല്യങ്ങൾക്ക് നിങ്ങൾക്ക് ഈ മൂല്യങ്ങൾ നൽകിയിട്ടുണ്ട് നിങ്ങൾ ഇതിന്റെ ഭംഗിയുള്ള രേഖാചിത്രം തയ്യാറാക്കുന്നു ഫ്രണ്ട് ഫ്രീ സർഫസ് കറക്ഷന്റെ മൂല്യം എങ്ങനെ മാറുന്നുവെന്ന് ഇത് നിങ്ങൾക്ക് ഒരു ആശയം നൽകുന്നു ആഴത്തിലുള്ള ക്രാക്കിന് നിങ്ങൾ എന്തുചെയ്യുന്നു ആഴത്തിലുള്ള ക്രാക്കിന് ബാക്ക് ഫ്രീ സർഫസ് കറക്ഷൻ 1 ആയി കുറയ്ക്കുക കാരണം ഫ്രണ്ട് ഫ്രീ സർഫസ് കറക്ഷൻ ഘടകം കൂടുതൽ പ്രബലമാകും അതാണ് നിങ്ങൾ കണ്ടെത്തുന്നത് എ ബൈ ബി കൂടുന്നതിനനുസരിച്ച് M k യുടെ മൂല്യവും വർദ്ധിക്കുന്നു എ ബൈ ബി ചെറുതാണെങ്കിൽ അത് 1 ന് അടുത്താണ് എ ബൈ ബി വലുതായിരിക്കുമ്പോൾ ഇത് വീണ്ടും വലുതായിത്തീരുന്നു സെ ഹാൾ കോബയാഷി അവരുടെ ടീം എന്നിവരുടെ ഫലമാണിത് അതിനാൽ ഒരു സർഫസ് ക്രാക്കിലെ സ്ട്രെസ് ഇന്റൻസിറ്റി കണ്ടെത്തുന്നതിനുള്ള ഒരു മെച്ചപ്പെടുത്തൽ കൂടിയാണിത് നമ്മൾ കുറച്ച് മെച്ചപ്പെടുത്തലുകൾ നോക്കാൻ പോകുന്നുവെന്ന് നിങ്ങൾക്കറിയാം ഇപ്പോൾ നമ്മൾ നോക്കിയത് ഒരു എലിപ്റ്റിക്കൽ ഫ്ലോ എംബെഡഡ് എലിപ്റ്റിക്കൽ ഫ്ലോ എന്നിവയുടെ സൊല്യൂഷൻ നമ്മൾ കണ്ടു എംബെഡഡ് എലിപ്റ്റിക്കൽ ഫ്ലോയിൽ നിന്ന് സർഫസ് ഫ്ളോക്കുള്ള സൊല്യൂഷൻ നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട് നമ്മൾ ഒരു സെമി എലിപ്റ്റിക്കൽ ക്രാക്ക് കണ്ടു

SIF കോർണർ ക്രാക്ക് ഞാൻ ഒരു കോർണർ ക്രാക്ക് നോക്കുന്നുവെന്ന് കരുതുക ഈ സൊല്യൂഷൻ ഞാൻ എങ്ങനെ പരിഷ്കരിക്കും ആദ്യം നമ്മൾ ചില ലഘൂകരണങ്ങൾ നോക്കും പിന്നീട് സമഗ്രമായ സൊല്യൂഷൻ നോക്കാം ബോൾട്ട് ഹോൾ ഫ്രാക്ച്ചർ ഉള്ള ഒരു ഹെലികോപ്റ്റർ ബ്ലേഡിൽ ഒരു കോണിൽ ക്രാക്ക് പ്രത്യക്ഷപ്പെടുന്നത് നമ്മൾ ഇതിനകം ശ്രദ്ധിച്ചു ക്രാക്ക് സർഫസും ഫ്രാക്ച്ചർ സർഫസും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമാക്കുന്ന പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇത് കണ്ടത് നിങ്ങൾക്ക് ഇത് ക്രാക്കിന്റെ ആകൃതിയാണ് നിങ്ങൾ ഉടനെ എന്താണ് ശ്രദ്ധിക്കുന്നത് എനിക്ക് ഈ അരികിൽ ഒരു ഫ്രീ സർഫസും ഈ അരികിൽ മറ്റൊരു ഫ്രീ സർഫസും ഉണ്ട് നമ്മൾ ഒരു കാര്യം പഠിച്ചു എനിക്ക് ഒരു ഫ്രീ സർഫസ് ഉണ്ടെങ്കിൽ അതിനെ ഞാൻ എന്തെങ്കിലും ചെയ്യണം സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ കൂടുതലായിരിക്കും ഒരു ഫ്രീ സർഫസിനുപകരം എനിക്ക് രണ്ട് ഫ്രീ സർഫസ് ഉണ്ട് അപ്പോൾ ആളുകൾ എന്തു ചെയ്തു നിങ്ങൾ 1 12 കൊണ്ട് ഗുണിക്കണം ഇത് ഉപയോഗിക്കുന്നതിനുപകരം അവർ ഇത് ഏകദേശം 1 2 ആയി കണക്കാക്കി എനിക്ക് ഈ ഭാഗത്ത് ഒരു ഫ്രീ സർഫസ് ഉണ്ട് എനിക്ക് ഈ ഭാഗത്ത് മറ്റൊരു ഫ്രീ സർഫസ് ഉണ്ട് അതിനാൽ ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ KI ഈക്വൽ റ്റു 1 2 സിഗ്മ റൂട്ട് ഓഫ് പൈ aആണ് ത്രൂ തിക്നെസ്സ് ക്രാക്കിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ വികസിപ്പിച്ച ചില അറിവുകളെ അടിസ്ഥാനമാക്കി ഇവയെല്ലാം സൊല്യൂഷൻ കാണാൻ ശ്രമിക്കുകയാണെന്ന് കാണുക ഇത് വച്ച് ആരംഭിക്കുന്നത് വളരെ നല്ലതാണെങ്കിലും നിങ്ങൾക്ക് കോഴ്സ് അവസാനിപ്പിക്കാൻ കഴിയില്ല ഒരു നിർണായക സാഹചര്യത്തിൽ കണ്ടെത്തുന്നതിനുള്ള കൃത്യമായ ഫലങ്ങൾ അറിയണം അല്ലെങ്കിൽ അതിനുള്ള രീതിശാസ്ത്രവും അറിയണം കഴിയുന്നത്ര കൃത്യമായി എങ്ങനെ വിലയിരുത്താമെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം അതും നമ്മൾ നോക്കും വാസ്തവത്തിൽ കോർണർ ക്രാക്കുകൾ വളരെ പ്രധാനമാണ് നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു ന്യൂക്ലിയർ പ്രഷർ വെസൽ ഉള്ളപ്പോൾ നിങ്ങൾക്കറിയാം ഷെല്ലിന്റെ കനം വളരെ ഉയർന്നതാണെന്ന് നിങ്ങൾക്കറിയാം ഇത് ഏകദേശം 250 മുതൽ 300 മില്ലിമീറ്റർ വരെ തിക്നെസ്സ് ഉള്ളതാണ് അതായത് ഇത് വളരെ കട്ടിയുള്ള സ്റ്റീൽ പ്ലേറ്റാണ് ഇത് ഒരു സ്റ്റീൽ ക്ലാഡിംഗ് ഉപയോഗിച്ചാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കോണിൽ നിന്ന് നോസിലുകൾ ഉള്ളപ്പോൾഅവിടെ നിങ്ങൾക്ക് കോർണർ ക്രാക്കുകൾ ഉണ്ടാകാം ഇവ അടിസ്ഥാനപരമായി ക്വാർട്ടർ എലിപ്റ്റിക്കൽ ക്രാക്കുകൾ ആയിരിക്കും അത്തരത്തിലുള്ള മോഡലിംഗ് ന്യായീകരിക്കപ്പെടുന്നു സർഫസ് ക്രാക്കുകളുടെ നേരിട്ടുള്ള വിശകലനം ഒരു കോർണർ ക്രാക്കിലോ സർഫസ് ക്രാക്കിലോ സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ എത്രയാണ് എന്നതിനെക്കുറിച്ചുള്ള അറിവ് അവയെല്ലാം പ്രായോഗിക രൂപകൽപ്പന കാഴ്ചപ്പാടിൽ വളരെ പ്രധാനമാണ് നമ്മൾ ഇപ്പോൾ നോക്കിയത് എനിക്ക് ആഴം കുറഞ്ഞ സർഫസ് ക്രാക്ക് അല്ലെങ്കിൽ ആഴമില്ലാത്ത കോർണർ ക്രാക്ക് ഉണ്ടെങ്കിൽ സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ നേടാനുള്ള മാർഗം എന്താണെന്ന് നമ്മൾക്കറിയാം സർഫസ് ക്രാക്കുകളുടെ നേരിട്ടുള്ള വിശകലനത്തെക്കുറിച്ച് ആളുകൾ സാഹിത്യത്തിൽ ഫലങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം അത്തരം ഫലങ്ങളും ലഭ്യമാണ് അക്കാലത്ത് ആളുകൾ ഗ്രാഫുകൾ ഉപയോഗിക്കുന്നതിൽ നിപുണരായിരുന്നു അതിനാൽ ഗ്രാഫിക്കൽ ഫലങ്ങൾ ലഭ്യമാണ് ദയവായി ഇതിന്റെ ഒരു രേഖാചിത്രം തയ്യാറാക്കുക ക്രാക്കിന്റെ ജ്യാമിതീയ പാരാമീറ്ററുകൾ ഇവിടെ കാണിച്ചിരിക്കുന്നു X ആക്സിസിൽ നിങ്ങൾ 2c ബൈ B പ്ലോട്ട് ചെയ്യുന്നു ഇവിടെ B തിക്നെസ്സ് ആണ് 2c എന്നത് ക്രാക്കിന്റെ നീളം ആണ് Y ആക്സിസിൽ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് സർഫസ് ഫ്ളോയുടെ സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടറിന്റെയും എഡ്ജ് ക്രാക്കിനുള്ള സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടറിന്റെയും അനുപാതം ആണ് അതായത് ത്രൂ തിക്നെസ്സ് ക്രാക്ക് എന്നാണ് ഇത് ഒരു പ്രത്യേക എ ബൈ ബി അനുപാതത്തിനായി നൽകിയിരിക്കുന്നു അതിനാൽ എ മാറുമ്പോൾ ക്രാക്ക് മെറ്റീരിയലിനുള്ളിൽ വളരുന്നു 1 ന് തുല്യമായ എ ബൈ ബിക്ക് ഉള്ള ഈ ഗ്രാഫ് എനിക്കുണ്ട് 2 ന് തുല്യമായ എ ബൈ ബി പ്ലോട്ട് ചെയ്യുന്നു നിങ്ങൾ കണ്ടെത്തുന്നത് 2 സി ബി വർദ്ധിക്കുന്നതിനനുസരിച്ച് ഒരു സർഫസ് ഫ്ളോക്കുള്ള സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ എഡ്ജ് ക്രാക്കിന്റെ സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടറിനെ സമീപിക്കുന്നു അതിനാൽ നിങ്ങൾ ഇവിടെ കണ്ടെത്തുന്നത് ക്രാക്ക് ദൈർഘ്യമേറിയതായിരിക്കണം അങ്ങിനെ സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ അനുബന്ധ എഡ്ജ് ക്രാക്കിനെ സമീപിക്കുന്നു ഇത് കഥയുടെ ഒരു വശമാണ് കഥയുടെ മറ്റൊരു വശം ഞാൻ എന്താണ് പറഞ്ഞത് നിങ്ങൾക്ക് സർഫസ് ഫ്ലോ ഉണ്ടാകുമ്പോഴെല്ലാം ക്രാക്ക് അസ്ഥിരത നിർണ്ണയിക്കാൻ നിങ്ങൾ പ്ലെയിൻ സ്ട്രെയിൻ ഫ്രാക്ചർ ടഫ്നെസ്സ് ഉപയോഗിക്കേണ്ടതുണ്ട് അതിനാൽ സർഫസ് ക്രാക്കുകൾ എഡ്ജ് ക്രാക്കുകളേക്കാൾ എല്ലായ്പ്പോഴും അപകടകരമാണ് നിങ്ങൾക്ക് ഒരു സെറ്റ് ഗ്രാഫുകൾ ഒരു ടെൻസൈൽ ലോഡിനായി വരച്ചിട്ടുണ്ട് എ ബൈ ബിയുടെ വിവിധ മൂല്യങ്ങൾക്കായി നിങ്ങൾ ഇത് പ്ലോട്ട് ചെയ്തിട്ടുണ്ട് ദയവായി ഈ ഡയഗ്രമുകളുടെ രേഖാചിത്രം തയ്യാറാക്കുക ഈ ഗ്രാഫുകൾ 0 2 0 5 0 6 0 7 എന്നിങ്ങനെയുള്ള എ ബൈ ബി ക്കു വേണ്ടി വരയ്ക്കുന്നു റൈസും ലെവിയും റിപ്പോർട്ടുചെയ്ത ഫലങ്ങളാണിവ ഞാൻ പറഞ്ഞതെല്ലാം ഇവിടെ പരാമർശിക്കുന്നു ഗ്രാഫ് ക്രാക്കിന്റെ മധ്യഭാഗത്തെ സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ നൽകുന്നു ഈ ഭാഗത്തെ ത്രൂ ക്രാക്കിന്റെ ഈ ഫലങ്ങൾ റൈസും ലെവിയും ചെയ്ത പ്രശ്നത്തിന്റെ ഏകദേശ ന്യൂമെറിക്കൽ സൊല്യൂഷൻ അടിസ്ഥാനമാക്കിയാണ് ലഭിക്കുന്നത് അവർക്ക് ലഭിച്ച ന്യൂമെറിക്കൽ ഫലങ്ങൾ എന്തുതന്നെയായാലും അവ സംഗ്രഹിക്കുകയും മറ്റുള്ളവരുടെ ഉപയോഗത്തിനായി ഒരു ഗ്രാഫായി അവതരിപ്പിക്കുകയും ചെയ്യുന്നു എഡ്ജ് ക്രാക്ക് എന്നാൽ പ്ലെയ്ൻ സ്ട്രെയിൻ കേസിനു സമാനമാണ് പ്ലെയ്ൻ സ്ട്രെയ്നിൽ ഒരു എഡ്ജ് ക്രാക്കിന്റെ ഇന്റെൻസിറ്റി ഫാക്ടർ അവർ ശ്രദ്ധിച്ചു നിങ്ങൾക്ക് സർഫസ് ഫ്ളോക്കു പരമാവധി സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ ഉള്ളപ്പോൾ നമ്മൾ പ്ലെയിൻ സ്ട്രെയിൻ ഫ്രാക്ചർ ടഫ്നെസ്സ് ഉപയോഗിക്കാൻ പോകുന്നു ആ പ്രശ്നം മനസ്സിൽ വച്ചുകൊണ്ട് സർഫസ് ഫ്ലോയുടെ സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടറിനെ പ്ലെയ്ൻ സ്ട്രെയ്നിലെ ഒരു എഡ്ജ് ക്രാക്കുമായി അവർ താരതമ്യം ചെയ്തു അത് മതിയായ ന്യായമാണ് അതാണ് ഇവിടെ സംഗ്രഹിച്ചിരിക്കുന്നത് ആഴം കൂടുതലായിരിക്കുമ്പോൾഞാൻ സൂചിപ്പിച്ച നിരീക്ഷണം ഇതാണ് ക്രാക്കിന് ദൈർഘ്യമേറിയതായിരിക്കണം അങ്ങനെ സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടർ എഡ്ജ് ക്രാക്കിന്റെ സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടറിനെ സമീപിക്കുന്നു അതാണ് ഇവിടെ സംഗ്രഹിച്ചിരിക്കുന്നത് മിതമായത് മുതൽ ആഴത്തിലുള്ള ക്രാക്ക് വരെയുള്ള ഒരു സ്ട്രിപ്പിലെയാണെങ്കിൽ വളരെ വലിയ സർഫസ് നീളം ഉണ്ടെങ്കിൽ മാത്രമേ ത്രൂ ക്രാക്കിന്റെ സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടർ പ്ലെയിൻ സ്ട്രെയിൻ എഡ്ജ് ക്രാക്കിന്റെ അടുത്തെത്തൂ സെർവിസ് സാഹചര്യം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ടെൻഷൻ ബെൻഡിങ് മോമെന്റ്റ് എന്നിവ ഉണ്ട് വാസ്തവത്തിൽ ഇർവിൻ നൽകിയ ഫലം ശരിക്കും ബെൻഡിങ് ലോഡുകളെ കണക്കിലെടുത്തില്ല ടെൻഷന് വിധേയമായ സ്ട്രിപ്പിലാണ് അവർ പ്രവർത്തിക്കുന്നത് ഒരു സെന്റർ ക്രാക്ക് അല്ലെങ്കിൽ എഡ്ജ് ക്രാക്കിനുപകരം നിങ്ങൾക്ക് ഒരു സർഫസ് ക്രാക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് അവർ വിശകലനം ചെയ്തു എന്നാൽ വാസ്തവത്തിൽ നിങ്ങൾക്ക് ബെൻഡിങ് ലോഡുകളും ഉണ്ടാകും ആളുകൾ ഒരു ന്യൂമെറിക്കൽ വിശകലനം നടത്തുമ്പോൾ അവർക്ക് ലോഡിംഗ് സുഖകരമായി മാറ്റാനും ബെൻഡിങ്ങിന്റെ സാന്നിധ്യത്തിൽ സ്ട്രെസ് ഇന്റൻസിറ്റി എങ്ങനെ വ്യത്യാസപ്പെടുന്നു എന്ന് നോക്കാനും കഴിയും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ന്യൂമെറിക്കൽ റിസൾട്ട് ലഭിക്കുമ്പോൾ അവ ടെൻഷനും ബെൻഡിങ്ങും ഉള്ളതാണ് ഗ്രാഫുകൾ പ്രത്യേകം ലഭ്യമാണ് അതിനാൽ ഇതിന്റെ ഒരു രേഖാചിത്രം തയ്യാറാക്കുക ഇത് വീണ്ടും നമുക്ക് ടെൻഷന് ലഭിച്ചതിന് സമാനമാണ് എന്നാൽ വിശദമായി നോക്കിയാൽ ഇത് വ്യത്യസ്തമാണ് സവിശേഷത സമാനമാണ് പക്ഷേ നിങ്ങൾ മൂല്യങ്ങൾ ശരിക്കും കണക്കാക്കുകയാണെങ്കിൽ അവ വ്യത്യസ്തമായിരിക്കും കാരണം ലോഡിംഗ് ബെൻഡിങ് ആണ് ഗ്രാഫ് വളരെ സമാനമാണ് എക്സ് ആക്സിസിൽ നിങ്ങൾക്ക് 2 സി ബൈ ബി ഉണ്ട് വൈ ആക്സിസിൽ നോർമലൈസ്ഡ് വാല്യൂ ആണ് സർഫേസ് ഫ്ളോയുടെയും എഡ്ജ് ക്രാക്കിന്റെയും k യുടെ അനുപാതംഒരേ എ ബൈ ബി മൂല്യത്തിനായി എടുത്തിട്ടുണ്ട് ഈ ഗ്രാഫുകൾ എ ബൈ ബി ഈക്വൽ റ്റു 0 1 0 2 0 3 0 4 0 5 എന്നിവയ്ക്ക് തുല്യമായി വരയ്ക്കുന്നു നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് കാണുക ക്യാപിറ്റൽ ക്യൂവിനായി നിങ്ങൾക്ക് ഗ്രാഫുകൾ ലഭ്യമാണ് അതോടൊപ്പം ഒരു സർഫേസ് ഫ്ലോക്കുള്ള സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടറിന്റെ മൂല്യം നിങ്ങൾക്ക് കണക്കാക്കാം അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് ഒരു ഗ്രാഫ് നോക്കി എഡ്ജ് ക്രാക്കുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു സർഫസ് ഫ്ളോക്കുള്ള സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ കണ്ടെത്തുക ആളുകൾ അത് നോക്കിക്കാണുന്നത് അങ്ങനെയാണ് നിങ്ങൾ ഇവിടെ കണ്ടെത്തുന്നത് ബെൻഡിങ് സൊല്യൂഷൻ നിങ്ങൾക്ക് ലഭ്യമാണ് ബെൻഡിങിനും ടെൻഷനുമായി നിങ്ങൾക്ക് പ്രത്യേകമായി സൊല്യൂഷൻ ലഭ്യമാണ് എന്നാൽ നിങ്ങൾ ഓർമ്മിക്കേണ്ടത് ഇതാണ് ഇവയെല്ലാം ഒരു സർഫസ് ക്രാക്കിന്റെ സൊല്യൂഷൻ കണ്ടെത്തുന്നതിനുള്ള ഘട്ടങ്ങളാണ് അവ വേണ്ടത്ര സമഗ്രമല്ല വ്യവസായ കാഴ്ചപ്പാടിൽ സർഫസ് ക്രാക്കുകൾ കൂടുതൽ അപകടകരമാണ് അതിനാൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും ആളുകൾ മികച്ച സൊല്യൂഷൻ വികസിപ്പിക്കുകയും ചെയ്തു അത്തരം സൊല്യൂഷൻ ഇപ്പോൾ ലഭ്യമാണ് സർഫസ് ക്രാക്കുകളെക്കുറിച്ച് ഇർവിന്റെ വിശകലനം എന്തായിരുന്നുവെന്ന് നമ്മൾ അവലോകനം ചെയ്യും നിങ്ങൾക്ക് ഒരു സർഫസ് ക്രാക്ക് ഉള്ള നിമിഷം മേജർ ആക്സിസിലൂടെയുള്ള ക്രാക്കിന് ലംബമായി നിങ്ങൾക്ക് ഒരു ഫ്രീ സർഫസ് ഉണ്ട് അത് അദ്ദേഹം തിരിച്ചറിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ക്രാക്ക് ഓപ്പണിംഗിന് എതിർവശത്ത് ഒരു ഫ്രീ സർഫസിന്റെ സാന്നിധ്യമുണ്ട് അതാണ് ഫ്രണ്ട് ഫ്രീ സർഫസ് അപ്പോൾ നിങ്ങൾക്ക് ക്രാക്ക് ടിപ്പിൽ പ്ലാസ്റ്റിക് സ്ട്രെയിൻ ഉണ്ട് ഈ പ്ലാസ്റ്റിക് സ്ട്രെയിൻ ക്രാക്ക് ടിപ്പിലും ബാക് ഫ്രീ സർഫസിലും ഇർവിൻ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മൾ സൂചിപ്പിച്ചത് ടെൻഷനിൽ ഉള്ള സെമി ഇൻഫിനിറ്റ് ബോഡികളിളിലെ ആഴം കുറഞ്ഞ സർഫേസ് ഫ്ലോകൾക്ക് ഈ ഫലം നല്ലതാണ് ഇർവിന്റെ വിശകലനത്തിന്റെ അപാകത എന്താണ് ഫൈനൈറ്റ് തിക്നെസ്സ് പ്ലേറ്റുകളിൽ ബാക്ക് ഫ്രീ സർഫസിനെ ഇത് പരിഗണിക്കുന്നില്ല എന്നാൽ ചർച്ചയിൽ നിങ്ങൾക്ക് ഫ്രണ്ട് ഫ്രീ സർഫസ് കറക്ഷൻ ഉള്ളിടത്ത് റൈസും മറ്റുള്ളവരും ഒരു സൊല്യൂഷൻ തന്നതായി കണ്ടു ഇത് കോബയാഷിയുടേതാണെന്ന് ഞാൻ കരുതുന്നു ഫ്രണ്ട് ഫ്രീ സർഫസ് കറക്ഷൻ ഘടകവും എങ്ങനെ പരിഷ്കരിക്കാമെന്ന് കണ്ടു ഇർവിന്റെ വിശകലനം നോക്കിയാൽ ആ ഫലങ്ങൾ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല തീർച്ചയായും ഇർവിന്റെ ഫലം ബെൻഡിങ് പ്ലേറ്റുകളുടെ സ്ട്രെസ് ഗ്രേഡിയന്റുകളെ പരിഗണിക്കുന്നില്ല യഥാർത്ഥ സർവീസ് കാഴ്ചപ്പാടിൽ ഈ സാഹചര്യത്തിനും സൊല്യൂഷൻ കണ്ടെത്തേണ്ടതുണ്ട് പ്രശ്നം പ്രധാനമാണെങ്കിൽ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം എത്ര ചെലവേറിയതാണെങ്കിലും അവർ വിശദമായ വിശകലനം നടത്തുന്നു 1979 ൽ രാജുവും ന്യൂമാനും ഇത് ചെയ്തു ഇർവിന്റെ സംഭാവന എന്തുതന്നെയായാലും 1960 കളിൽ അദ്ദേഹം ആ തന്ത്രങ്ങൾ കൊണ്ടുവന്നു അതിനാൽ നിങ്ങൾ അഭിനന്ദിക്കണം ഫ്രാക്ചർ മെക്കാനിക്സിന്റെ പ്രാരംഭ ഘട്ടം ആളുകൾ ഇരുട്ടിൽ തപ്പിനടക്കുമ്പോൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഇർവിൻ തീർച്ചയായും കാണിച്ചുതന്നു ലളിതമായ പ്രശ്നങ്ങളിൽ നിന്ന് കൂടുതൽ വെല്ലുവിളി നിറഞ്ഞ സങ്കീർണ്ണമായ പ്രശ്നങ്ങളിലേക്ക് പുരോഗമിച്ചു ഫൈനൈറ്റ് എലെമെന്റ് സാങ്കേതികതയും കമ്പ്യൂട്ടറുകളും നിങ്ങൾക്ക് 1960 ന് ശേഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ 1979 ൽ ന്യൂമെറിക്കൽ സങ്കേതങ്ങൾ ലഭ്യമായിരുന്നപ്പോൾ ടെൻഷനിലും ആന്റി പ്ലെയ്ൻ ബെൻഡിങ്ങിലുമുള്ള സെമി എലിപ്റ്റിക്കൽ സർഫേസ് ഫ്ലോയെക്കുറിച്ചുള്ള സമഗ്രമായ ത്രിമാന ഫൈനൈറ്റ് എലമെന്റ് വിശകലനം രാജുവും ന്യൂമാനും ഏറ്റെടുത്തു ഞാൻ എല്ലായ്പ്പോഴും സൂചിപ്പിച്ചതായി കാണുക ലഭ്യമായ പല എംപിരിക്കൽ സൊല്യൂഷനുകൾക്കും ഒരു ന്യൂമെറിക്കൽ റിസൾട്ട് വിശകലനത്തിൽ നിന്ന് ഉത്ഭവമുണ്ട് അവർക്ക് ലഭിക്കുന്ന ന്യൂമെറിക്കൽ റിസൾട്ട് വിശകലനം എന്തുതന്നെയായാലും അവർ അതിനെ ഒരു എംപിരിക്കൽ റിലേഷന്റെ രൂപത്തിൽ പ്രതിനിധീകരിക്കാൻ ശ്രമിക്കുന്നു അതിനാൽ മറ്റ് കോൺഫിഗറേഷനുകൾക്കും ആളുകൾക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയും ന്യൂമെറിക്കൽ റിസൾട്ട് വിശകലനത്തിലെ അപാകത ഓരോ കോൺഫിഗറേഷനും നിങ്ങൾ സോഫ്റ്റ്വെയർ പ്രവർത്തിപ്പിച്ച് ഫലം നേടണം എന്നതാണ് എന്നാൽ നിങ്ങൾ സമാനമായ നിരവധി കോൺഫിഗറേഷനുകൾക്കായി ഒരു എംപിരിക്കൽ രൂപത്തെ ബുദ്ധിപരമായി നൽകുകയാണെങ്കിൽ ഫലങ്ങൾ വിശദീകരിക്കാൻ കഴിയും നിങ്ങൾ സാഹിത്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഫലം ഉടനടി പ്രോസസ്സ് ചെയ്തിട്ടില്ല പോസ്റ്റുപ്രോസസ്സ് ചെയ്യാൻ അവർക്ക് കുറച്ച് സമയമെടുത്തു ഈ ഡയഗ്രം എന്താണ് നൽകുന്നത് അവർ ഒരു സെമി എലിപ്റ്റിക്കൽ സർഫേസ് ഫ്ലോ വിശകലനം ചെയ്തു ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ക്രാക്കിന്റെ നീളം 2 സി എന്നും ആഴം a എന്നും നിങ്ങൾ എങ്ങനെ തിരിച്ചറിയുന്നു ഈ ഭാഗം ഷേഡുള്ളതാണെന്നും നിങ്ങൾക്ക് കാണാൻ കഴിയും നമ്മൾ ആ കാരണം അടുത്ത ക്ലാസിൽ കാണും നിങ്ങൾക്ക് ഇവിടെ ഉയർന്ന ട്രയാക്സിയൽ സോൺ ഉണ്ട് നമ്മൾ അത് ചർച്ച ചെയ്യും അതുകൊണ്ടാണ് എല്ലാ ഇൻസ്റ്റബിലിറ്റി കണക്കുകൂട്ടലിനും ഒരു സർഫസ് ക്രാക്ക് ഒരു പ്ലെയിൻ സ്ട്രെയിൻ ഫ്രാക്ചർ ടഫ്നെസ്സ് ഉപയോഗിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞത് സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ വീക്ഷണകോണിൽ നിന്നു നോക്കുമ്പോൾ ഒരു എഡ്ജ് ക്രാക്കുമായി നമ്മൾ ഒരു സർഫസ് ക്രാക്കിനെ താരതമ്യം ചെയ്യുന്നു അവ താരതമ്യപ്പെടുത്താമെങ്കിലും ഉപയോഗിക്കേണ്ട ഫ്രാക്ചർ ടഫ്നെസ്സിനെ താരതമ്യം ചെയ്താൽ സർഫസ് ക്രാക്കിന് നിങ്ങൾ താഴ്ന്ന ഫ്രാക്ച്ചർ ടഫ്നെസ്സ് ഉപയോഗിക്കുന്നു അതിനാൽ തിക്നെസ്സ് ക്രാക്കിനേക്കാൾ സർഫസ് ക്രാക്കുകൾ എല്ലായ്പ്പോഴും അപകടകരമാണ് നിങ്ങൾ ഓർമ്മിക്കേണ്ടതാണ് രാജുവും ന്യൂമാനും നേടിയ ഫലങ്ങൾ എന്തായാലും എഞ്ചിനീയറിംഗ് സമൂഹം നിർണ്ണായകമായി കണക്കാക്കി ആളുകൾ ഈ ഫലങ്ങളിൽ വളരെയധികം വിശ്വാസമർപ്പിക്കുന്നു അങ്ങനെയാണ് നിങ്ങൾക്ക് ഫലങ്ങൾ ലഭിക്കുന്നത് 1981 ൽ അവരുടെ ന്യൂമെറിക്കൽ റിസൾട്ട് ലഭിച്ച് രണ്ടുവർഷത്തിനുശേഷം എംപിരിക്കൽ സമവാക്യം സൃഷ്ടിക്കുന്നതിനായി വിപുലമായ ഡാറ്റയെ ഉൾപ്പെടുത്തി ഡബിൾ സീരീസ് പോളിനോമിയലുകൾ ഉപയോഗിച്ച് അവർ പഠനം നടത്തി നിങ്ങൾ ഓർമ്മിക്കേണ്ട കാര്യം നിങ്ങൾക്ക് ഫലമൊന്നുമില്ലെങ്കിൽ നിങ്ങൾ ഈ ഘടകം 1 12 ഫ്രണ്ട് ഫ്രീ സർഫസ് ബാക്ക് ഫ്രീ സർഫസ് എന്നിവ ഉപയോഗിക്കും തുടർന്ന് ഒരു കോർണർ ക്രാക്കിനായി 1 12 ഇന്റു 1 12 ചെയ്യും നിങ്ങൾ ചെയ്യുന്ന സർക്കസ് എല്ലാം ഇതാണ് എന്നാൽ നിങ്ങൾ ശരിക്കും ബിസിനസ്സിലാണെങ്കിൽ കൃത്യമായ ഫലം അറിയണമെങ്കിൽ ന്യൂമാന്റെയും രാജുവിന്റെയും സൊല്യൂഷനിലേക്ക് പോകുക നിങ്ങൾക്ക് ആ എംപിരിക്കൽ റിലേഷൻ ലഭ്യമാണ് ആ ഒരു കൂട്ടം എംപിരിക്കൽ റിലേഷൻ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നു നിങ്ങൾ നീണ്ട എക്സ്പ്രഷൻ എഴുതണം ന്യൂമാന്റെയും രാജുവിന്റെയും എംപിരിക്കൽ റിലേഷൻ എക്സ്പ്രഷൻ ഇതുപോലെയാണ് KI ഈക്വൽ റ്റു സിഗ്മ ടി പ്ലസ് H ഇന്റു സിഗ്മ ബി സിഗ്മ ടി ടെൻഷൻ മൂലമുണ്ടാകുന്ന സ്ട്രെസ് സിഗ്മ ബി ബെൻഡിങ് സ്ട്രെസ് ഇന്റു റൂട്ട് ഓഫ് പൈ എ ബൈ Q ആണ് നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ട് ഫങ്ഷൻ ഓഫ് എ ബൈ ബി അനുപാതം എ ബൈ സി അനുപാതം സി ബൈ ഡബ്ല്യു അനുപാതം തീറ്റ ഇവയെല്ലാം തുടർന്നുള്ള സമവാക്യങ്ങളിൽ കാണാം ഞാൻ സൂചിപ്പിച്ച കാര്യങ്ങൾ ഇവിടെ സംഗ്രഹിച്ചിരിക്കുന്നു സിഗ്മ ടി എന്നത് വിദൂരമായി പ്രയോഗിക്കുന്ന ടെൻസൈൽ സ്ട്രെസ് ആണ് കൂടാതെ സിഗ്മ ബി ബെൻഡിങ് മോമെന്റ്റ് Mb മൂലമുള്ള പരമാവധി ഫൈബർ സ്ട്രെസ് ആണ് ഇവിടെ സിഗ്മ ബി ഈക്വൽ റ്റു 6 M ബൈ WB ക്യൂബ് ആണ് ഇവിടെ B ആണ് ഈ കനം ഈ തിക്നെസ്സ് ബി ഉണ്ട് എനിക്ക് സർഫസ് ക്രാക്ക് ഉണ്ട് Q നായി നിങ്ങൾക്ക് എക്സ്പ്രഷനുമുണ്ട് നിങ്ങൾ ഒരു എംപിരിക്കൽ റിലേഷൻ എഴുതാൻ ശ്രമിക്കുന്നു Q യ്ക്കായുള്ള ഈ എക്സ്പ്രഷൻ ഒരു ശ്രീ റാവേ ആണ് നൽകിയത് ഇത് ഇതുപോലെയാണ് Q ഈക്വൽ റ്റു I 2 സ്ക്വയർഅത് 1 പ്ലസ് 1 464 ഇന്റു സി ബൈ എ ഹോൾ പവർ 1 65 എ ബൈ സി 1 ന് തുല്യമാണ് അല്ലെങ്കിൽ കുറവായിരിക്കാണം നിങ്ങൾക്കറിയാമോ ആ ടീമിന്റെ ന്യൂമെറിക്കൽ റിസൾട്ട് വച്ച് എംപിരിക്കൽ സൊല്യൂഷൻ നൽകിയതിന് നിങ്ങൾ അവരെ അഭിനന്ദിക്കണം എംപിരിക്കൽ സൊല്യൂഷൻ വളരെ സങ്കീർണ്ണമാണ് ഇത് ലളിതമല്ല അവർ എങ്ങനെയാണ് എത്തിയത് എന്നതിന് പിന്നിൽ യുക്തിയില്ല അവർക്ക് ഫലങ്ങൾ ലഭിച്ചു ഫലങ്ങളുടെ ഒരുതരം പരിണാമം വേഗത്തിൽ കാണാൻ അവർക്ക് കഴിഞ്ഞു എന്നിട്ട് അവർക്ക് അത് ഒരു നല്ല എംപിരിക്കൽ റിലേഷനിൽ അവതരിപ്പിക്കാൻ കഴിയും അവർ അത് എങ്ങനെ ചെയ്തു നിങ്ങൾ പോയി അവരോട് മാത്രം ചോദിക്കണം ശരി നിങ്ങൾ എക്സ്പ്രഷൻ നോക്കുകയാണെങ്കിൽ ഫലങ്ങൾ വളരെ നീളമുള്ളതും സങ്കീർണ്ണവുമാണ് എംപിരിക്കൽ റിലേഷൻ കണക്കാക്കുന്നതിൽ അവർ ഒരു നല്ല ജോലി ചെയ്തു Q ഈക്വൽ റ്റു 1 പ്ലസ് 1 464 സി ബൈ എ ഹോൾ പവർ 1 65 എ ബൈ സി 1 നേക്കാൾ വലുതാണ് അല്ലെങ്കിൽ തുല്യമാണ് അടുത്ത രണ്ട് മൂന്ന് സ്ലൈഡുകൾ വിവിധ പദങ്ങളുടെ ഈ വിപുലീകരണത്തെ മാത്രം കൈകാര്യം ചെയ്യും ശരി ഇവിടെ പരാമർശിച്ചിരിക്കുന്നതിൽ നിന്ന് Q വിലയിരുത്തുക പിശക് a യുടെ എല്ലാ മൂല്യങ്ങൾക്കും 0 13 ശതമാനത്തിനുള്ളിലാണ് അത്തരത്തിലുള്ള വിവരങ്ങളും നൽകിയിട്ടുണ്ട് ന്യൂമാനും രാജുവും തിരഞ്ഞെടുത്ത ഫംഗ്ഷന് ഇതുപോലുള്ള ഒരു ഫോം ഉണ്ട് എഫ് ഈക്വൽ റ്റു എം 1 പ്ലസ് എം 2 ഇന്റു എ ബൈ ബി ഹോൾ സ്ക്വയർ പ്ലസ് എം 3 എ ബൈ ബി ഹോൾ പവർ 4 ഇന്റു തീറ്റയുടെ ഒരു ഫംഗ്ഷനും G യുടെ ഫങ്ഷനും w ന്റെ ഫംഗ്ഷനും നമ്മൾ ഓരോന്നും കാണും ആ എക്സ്പ്രഷൻ ആണ് നിങ്ങൾ എഴുതേണ്ടത് എനിക്ക് M1 നായി എന്താണ് ഉള്ളത് എം 1 1 13 മൈനസ് 0 09 ഇന്റു a ബൈ c ആണ് നിങ്ങൾക്ക് മൈനസ് 0 54 പ്ലസ് 89 ബൈ 0 2 പ്ലസ് എ ബൈ സി ആയി M2 നൽകിയിട്ടുണ്ട് എം 3 0 5 മൈനസ് 1 0 ബൈ 0 65 പ്ലസ് എ ബൈ സി പ്ലസ് 14 ഇന്റു 1 മൈനസ് എ ബൈ സി ഹോൾ പവർ 24 ആണ് എനിക്ക് ഉറപ്പുണ്ട് എംപിരിക്കൽ റിലേഷൻ വളരെ സങ്കീർണ്ണമാണെന്ന് നിങ്ങൾ സമ്മതിക്കും ഫലം ഏകീകരിക്കുന്നതിൽ അവർ എങ്ങനെയാണ് എത്തിച്ചേർന്നത് ഇത്തരത്തിലുള്ള സൊല്യൂഷൻ നൽകിയതിന് നിങ്ങൾ അവരോട് ശരിക്കും നന്ദി പറയണം വിദ്യാർത്ഥികൾ അവരുടെ ജോലി ചെയ്യുമ്പോൾ പോലും അവ സൌകര്യപ്രദമായ രൂപത്തിൽ റിപ്പോർട്ട് ചെയ്യണമെന്നും ഇത് ഊന്നിപ്പറയുന്നു മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ സൌകര്യപ്രദമായ രൂപത്തിൽ ലഭിക്കുന്ന ഫലങ്ങൾ റിപ്പോർട്ടുചെയ്യുക നമുക്ക് പരിചിതമായ തീറ്റ എന്ന ഫംഗ്ഷൻ നമ്മൾ അത് നിരവധി സ്ലൈഡുകളിൽ കാണുന്നു അത് എ ബൈ സി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഹോൾ പവർ 1 ബൈ 4 ആണ് g എന്നത് 1 പ്ലസ് 0 1പ്ലസ് 0 35 എ ബൈ ബി ഹോൾ സ്ക്വയർ ഹോൾ ഇന്റു 1 മൈനസ് സൈൻ തീറ്റ ഹോൾ സ്ക്വയർ ആണ് നിങ്ങൾക്ക് w ന്റെ ഫങ്ഷൻ സീക്കന്റ് ടൈംസ് പൈ c ബൈ W സ്ക്വയർ റൂട്ട് ഓഫ് എ ബൈ ബി ഹോൾ പവർ ഹാഫ് ആണ് ഈ സൊല്യൂഷനിൽ കാണുക പ്ലാസ്റ്റിസിറ്റി ഇഫക്റ്റുകൾക്ക് ഒരു തിരുത്തലും നിങ്ങൾ കണ്ടെത്തുകയില്ല കാരണം അവയുടെ വിശകലനം ഇലാസ്റ്റിക് ആയിരുന്നു ഇത് എഡ്ജ് ക്രാക്കിൽ നിന്ന് വരുന്നു ഇത് എംബെഡഡ് എലിപ്റ്റിക്കൽ ഫ്ലോയിൽ നിന്നാണ് വരുന്നത് ഇത് വളരെ വ്യക്തമായി സാഹിത്യത്തിൽ പരാമർശിക്കപ്പെടുന്നു എഞ്ചിനീയറിംഗ് വിധി ഉപയോഗിച്ച് ന്യൂമാനും രാജുവും എച്ച് എന്ന ഫങ്ഷൻ പ്രകടിപ്പിച്ചു നിങ്ങൾക്കറിയാമോ അത് വളരെ പ്രധാനപ്പെട്ട ഒരു വശമാണ് ഈ ഫങ്ഷൻ അത്ര ലളിതമല്ല അതിനാൽ അവർ എച്ച് നെ എച്ച് 1 പ്ലസ് എച്ച് 2 മൈനസ് എച്ച് 1 ഇന്റു സൈൻ പവർ പി തീറ്റ എന്ന് റിപ്പോർട്ടുചെയ്തു തന്നിരിക്കുന്ന എല്ലാത്തിനും നിങ്ങൾക്ക് മൂല്യങ്ങളുണ്ട് pഈക്വൽ റ്റു 0 2 പ്ലസ് എ ബൈ സി പ്ലസ് 0 6 എ ബൈ ബി ആണ് നമുക്ക് എച്ച് 1 എച്ച് 2 എന്നിവയ്ക്കുള്ള എക്സ്പ്രഷനുകളും ഉണ്ടാകും എച്ച് 1 നെ 1 മൈനസ് 0 34 എ ബൈ ബി മൈനസ് 0 11 എ ബൈ സി ഇന്റു എ ബൈ ബി എന്ന് എഴുതാം നിങ്ങൾക്ക് എച്ച് 2 1 പ്ലസ് ജി 1 ഇന്റു എ ബൈ ബി പ്ലസ് ജി 2 എ ബൈ ബി ഹോൾ സ്ക്വയർ ആണ് ജി 1 ജി 2 എന്താണെന്ന് നിർവചിക്കേണ്ടതുണ്ടെന്ന് നിങ്ങൾക്കറിയാം ഞാൻ അത് അടുത്ത ക്ലാസിലേക്ക് മാറ്റിവയ്ക്കുന്നു ജി 1 ജി 2 എന്താണെന്ന് നമുക്ക് നോക്കാം കൂടാതെ അവയുടെ ഫലങ്ങളുടെ ഒരു സംഗ്രഹവും നോക്കും പ്ലാസ്റ്റിക് സോൺ കറക്ഷൻ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സോൺ ലെങ്ത് കണക്കുകൂട്ടൽ അല്ലെങ്കിൽ ക്രാക്ക് ടിപ്പിന്റെ പ്ലാസ്റ്റിക് മോഡലിംഗ് എന്നിവയെക്കുറിച്ചുള്ള അടുത്ത അധ്യായത്തിലേക്ക് നമ്മൾ നീങ്ങുന്നു നമുക്ക് അത് പരിശോധിക്കാം ഈ ക്ലാസ്സിൽ ഒരു സർഫസ് ക്രാക്കിനുള്ള സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ ലഭിക്കുന്നതിന് നമ്മൾ വിവിധ രീതികൾ പരിശോധിച്ചു സെമി എലിപ്റ്റിക്കൽ ഫ്ലോ ആയി ഇതിനെ മാതൃകയാക്കാമെന്ന് നമ്മൾ പറഞ്ഞു ഒരു കോർണർ ക്രാക്കിനെ ക്വാർട്ടർ എലിപ്റ്റിക്കൽ ഫ്ലോ ആയി മാതൃകയാക്കാം ലീക്ക് ബിഫോർ ബ്രേക്ക് എങ്ങനെ സാധ്യമാകുമെന്നതിനെക്കുറിച്ചും നമ്മൾ ഒരു ഹ്രസ്വ ചർച്ച നടത്തി അത് സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടർ ഫ്രാക്ച്ചർ ടഫ്നെസ്സ് എന്നിവ അത്തരം കണക്കുകൂട്ടലുകൾക്ക് ഉപയോഗിക്കേണ്ടതുണ്ട് ഇത് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു അതുകൊണ്ടാണ് സിസ്റ്റം അനുയോജ്യമായ രീതിയിൽ രൂപകൽപ്പന ചെയ്യുന്നതിലൂടെലീക്കിനും ബ്രേക്കിനും ഇടയിൽ മതിയായ ഇടവേള നൽകാൻ കഴിയുമെന്ന് ആളുകൾ കരുതിയത്